ഇൻഡസ്ട്രി 4 0 ന് വ്യത്യസ്ത സാങ്കേതിക പരിഗണനകൾ ആവശ്യമാണ് പലപ്പോഴും ഗൌരവമായി കാണാത്ത ഒരു കാര്യം എന്നാൽ ഇൻഡസ്ട്രി 4 0 പാലിക്കുന്നതിന് ഞങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് വളരെ പ്രധാനമാണ് വിജ്ഞാന അടിത്തറയുടെ സഹായം സ്വീകരിക്കുക എന്നതാണ് ഒരേ വ്യവസായത്തിൽ നിന്നുള്ള മുൻകാല ഉൽപ്പാദന പ്രക്രിയകളിൽ നിന്നോ മറ്റ് യൂണിറ്റുകളിൽ നിലവിലുള്ള ഉൽപ്പാദന പ്രക്രിയകളിൽ നിന്നോ അല്ലെങ്കിൽ സമാനമായ തരത്തിലുള്ള ഉൽപ്പാദന പ്രക്രിയകൾ പിന്തുടരുന്ന മറ്റ് വ്യവസായങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാന അടിത്തറയിൽ നിന്നോ ഉള്ള അറിവ്

അതിനാൽ ഈ വിജ്ഞാന അടിത്തറ വളരെ സഹായകരമാകും അതിനാലാണ് ഞങ്ങൾക്ക് ഒരു വിജ്ഞാന പങ്കിടൽ സംവിധാനം നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആവശ്യമായി വരുന്നത് സഹകരണ പ്ലാറ്റ്ഫോമുകൾ വളരെ പ്രധാനമാണ് കൂടാതെ ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഉൽപ്പന്ന ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിനെക്കുറിച്ച് സംസാരിക്കും ഇൻഡസ്ട്രി 4 0 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിന് PLM ഉൽപ്പന്നങ്ങളുടെ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിൽ നിങ്ങൾക്ക് എങ്ങനെ ഓട്ടോമേഷൻ നേടാം അതിനാൽ ഈ സവിശേഷതകളിൽ ചിലത് നോക്കാം ഇവ ഓരോന്നിനെയും കുറിച്ചുള്ള ഉയർന്ന തലത്തിലുള്ള ധാരണ അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ അപ്പോൾ എന്താണ് ഒരു സഹകരണ പ്ലാറ്റ്ഫോം അതിനാൽ അടിസ്ഥാനപരമായി ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആകാം അത് ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമാകാം ഇത് ജീവനക്കാരെ വിവരങ്ങൾ പങ്കിടാനും ചില ബിസിനസ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു അതിനാൽ ഒരു സഹകരണ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ജീവനക്കാർക്ക് തങ്ങൾക്കിടയിൽ വിവരങ്ങൾ പങ്കിടാനാകും ഈ സഹകരണ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം വഴി ഒരു വ്യവസായത്തിലെ ജീവനക്കാർക്ക് മറ്റൊരു വ്യവസായത്തിലെ ജീവനക്കാരുമായി വിവരങ്ങൾ പങ്കിടാൻ കഴിയും ഈ കാര്യം നിങ്ങൾക്ക് സാമാന്യവൽക്കരിക്കാനും വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാനും കഴിയും അതിനാൽ സഹകരണ പ്ലാറ്റ്ഫോമുകൾ അടിസ്ഥാനപരമായി സംസാരിക്കുന്നത് അറിവ് പങ്കിടുന്നതിൽ ഉൾപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് അറിവ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം വിജ്ഞാന മാനേജുമെന്റ് ബിസിനസ്സ് പ്രക്രിയകളുടെ നവീകരണത്തിനും ഈ ബിസിനസിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ബിസിനസ്സ് പ്രവർത്തനത്തിൽ അത് ഉൾപ്പെടുത്തുക ഭാവിയിൽ പ്രക്രിയകൾ അതിനാൽ ഇത് ചെയ്യാൻ ഒരു സഹകരണ പ്ലാറ്റ്ഫോം സഹായിക്കും അപ്പോൾ എന്താണ് ഒരു സഹകരണ പ്ലാറ്റ്ഫോം സഹകരണ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതിന് ചില വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് ബിസിനസ്സ് സോഷ്യൽ ലെയറിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സോഷ്യൽ ലെയർ ഘടകം ഉണ്ട് കാരണം ഞങ്ങൾ സംസാരിക്കുന്നത് ജീവനക്കാരെക്കുറിച്ചാണ് ഈ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടെ അവരുടെ വ്യത്യസ്ത അറിവുകൾ പങ്കിടുന്ന ഉപയോക്താക്കളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് സോഷ്യൽ ലെയർ ഘടകം സംയോജിപ്പിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു പ്രൊവിഷനിംഗിനൊപ്പം ബിസിനസ്സ് ഉപയോഗങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു തരം പ്ലാറ്റ്ഫോം ആവശ്യമാണ് അതിനാൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോ ഏറ്റെടുക്കുന്നതോ വ്യവസായത്തിൽ സ്ഥാപിക്കുന്നതോ ആയ നിലവിലുള്ള ഉൽപ്പന്നങ്ങളുമായോ പുതിയ ഉൽപ്പന്നങ്ങളുമായോ സംയോജിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉപകരണം നിങ്ങൾക്ക് ആവശ്യമാണ് അതിനാൽ ബിസിനസ് സഹകരണ പ്ലാറ്റ്ഫോമുകളിൽ പൊതുവായ ചില ആട്രിബ്യൂട്ടുകൾ ഉണ്ട് ഈ സഹകരണ പ്ലാറ്റ്ഫോമുകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായിരിക്കണം അവർക്ക് പരിചിതമായ ചില ഫംഗ്ഷനുകൾ ആവശ്യമാണ് അത് ടീം അംഗങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ടീമുകളിൽ ഉടനീളമുള്ള സഹകരണത്തിന് സഹായിക്കുന്നു അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പ്രോ വർക്ക് ഫ്ലോ എന്ന് വിളിക്കുന്നു ഇത് വ്യവസായങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സഹകരണ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് അതിനാൽ ഇത് മാനേജർമാർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വെബ് അധിഷ്ഠിത പ്രോജക്റ്റ് മാനേജുമെന്റ് പ്ലാറ്റ്ഫോമാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ് പ്രക്രിയയിൽ പ്രൊഡക്ഷൻ പ്രക്രിയയിൽ പ്രോജക്റ്റ് ഡെലിവറിയിൽ സഹകരിക്കാനും മെച്ചപ്പെടുത്താനും ഈ പ്ലാറ്റ്ഫോം അടിസ്ഥാനപരമായി ജീവനക്കാരെ സഹായിക്കുന്നു അതിനാൽ ഇത് ഒരു സഹകരണ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഉദാഹരണമാണ് ഈ സഹകരണ പ്ലാറ്റ്ഫോം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അതിനാൽ ഞങ്ങൾ ഒരു സഹകരണ പ്ലാറ്റ്ഫോമിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അറിവ് ശേഖരിക്കുന്നതിനും അറിവ് ശേഖരിക്കുന്നതിനും ഈ സഹകരണ പ്ലാറ്റ്ഫോം സഹായിക്കും അതിനാൽ ഈ അറിവ് വിജ്ഞാന മാനേജ്മെന്റിൽ ഉപയോഗിക്കും അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് സംഭവിക്കുന്നത് ഈ സഹകരണ പ്ലാറ്റ്ഫോം സഹായിക്കുന്നു അല്ലെങ്കിൽ അത് വിജ്ഞാന മാനേജ്മെന്റ് പ്രാപ്തമാക്കുന്നു അതിനാൽ വ്യത്യസ്ത വ്യവസായ ഏജന്റുമാർക്ക് ഈ വിജ്ഞാന മാനേജ്മെന്റ് പ്രധാനമാണ് അതുപോലെ മറ്റ് വ്യവസായ ഏജന്റുമാരും വ്യവസായ ഏജന്റുമാരും ഉണ്ടാകാം അതിനാൽ ഈ വ്യവസായ ഏജന്റുമാർ തങ്ങൾക്കിടയിൽ വിവരങ്ങൾ പങ്കിടുകയും ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അതിനാൽ ഒരു സഹകരണ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ വിജ്ഞാന മാനേജ്മെന്റ് വശവുമായി ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുക ഈ ബിസിനസ്സ് നിർമ്മാണ പ്രക്രിയകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക ഇൻഡസ്ട്രി 4 0 ന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലേക്കാണ് ആശയം നടക്കുന്നത് ഈ സഹകരണ പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തുമെന്ന് ഞങ്ങൾ പറയുന്നു ഉപയോഗപ്രദമാകും അതിനാൽ സഹകരണ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്താൻ പോകുന്നു വർദ്ധിപ്പിക്കാൻ പോകുന്നു അതിനാൽ സഹകരണ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നാല് വ്യത്യസ്ത വശങ്ങളുണ്ട് ഐടി എന്നിങ്ങനെ വിവിധ പ്രധാന ഭാഗങ്ങളുടെ സഹായത്തോടെ ഇത് പ്രവർത്തനക്ഷമമാക്കും അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഇവ ഓരോന്നും കൂടുതൽ വിശദമായി നോക്കാം ഐടി വ്യാപനത്തിന് ഐ അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് സംഭവിച്ചത് കമ്പ്യൂട്ടറുകളും കമ്പ്യൂട്ടേഷണൽ ഉപകരണങ്ങളും കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്ന് നമുക്കറിയാം ലോകമെമ്പാടുമുള്ള വിവിധ കമ്പനികളിലെ മൂലധന സ്റ്റോക്കുകളിലും ഓഹരികളിലും വർധനവുണ്ടായിട്ടുണ്ട് അതിനാൽ ലോകമെമ്പാടുമുള്ള ഈ വ്യവസായങ്ങൾ ഈ കമ്പ്യൂട്ടിംഗ് ശക്തിയുടെ സഹായത്തോടെ ആഗോള വിവര സാങ്കേതികവിദ്യ ആഗോള വിവര സംവിധാനങ്ങൾ എന്നിവ പരിഗണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനാൽ സ്റ്റോറേജ് കപ്പാസിറ്റികൾ വർദ്ധിച്ചു കമ്പ്യൂട്ടേഷണൽ ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റികൾ വർദ്ധിച്ചു അവ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ സഹകരണ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നതിന് ആവശ്യമായ കമ്പ്യൂട്ടേഷണൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിന് ഈ ഐടി വ്യാപനം അടിസ്ഥാനപരമായി സഹായിച്ചു സത്യത്തിന്റെ ഏക ഉറവിടം എന്നതിനർത്ഥം ഞങ്ങൾ ഒരു ശേഖരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവിടെ എല്ലാ ഡാറ്റയും സംഭരിക്കാൻ പോകുന്നു അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ സംസാരിക്കുന്നത് ഓരോ ഡാറ്റാ ഘടകങ്ങളും കൃത്യമായി ഒരു തവണ സംഭരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഡാറ്റ മോഡലിനെയും വിവര മോഡലിനെയും കുറിച്ചാണ് അതിനാൽ സത്യത്തിന്റെ ഈ ഒരൊറ്റ ഉറവിടം ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം അതിനാൽ മുഴുവൻ ഉൽപ്പന്ന ജീവിത ചക്രത്തിലുടനീളം സത്യത്തിന്റെ ഒരൊറ്റ ഉറവിടം ആവശ്യമാണ് ഇത് വളരെ പ്രധാനമാണ് വ്യവസായവൽക്കരണം അതിനാൽ ഇത് അടിസ്ഥാനപരമായി വെർച്വൽ ലോകത്തിനും ഭൌതിക പരിതസ്ഥിതിക്കും ഇടയിലുള്ള പാലമാണ് അതിനാൽ നമ്മൾ നേരത്തെ സംസാരിച്ച സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഭൌതിക അന്തരീക്ഷം വെർച്വൽ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളിൽ കമ്പ്യൂട്ടറുകൾ സെൻസറുകൾ ആക്യുവേറ്ററുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ ഈ സംവിധാനങ്ങൾക്ക് അവബോധജന്യവും സ്വയം ഫലപ്രദവുമായ ഘടകങ്ങൾ അവയിൽ സ്വീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഇതാണ് അതിന്റെ വ്യവസായവൽക്കരണ വശം ഏകോപനമെന്നത് അടിസ്ഥാനപരമായി ഒരേ വ്യവസായത്തിലെ ഒന്നിലധികം വ്യവസായ ഏജന്റുമാർക്കിടയിൽ വിവിധ വ്യവസായങ്ങളിൽ ഉടനീളം ശക്തമായ ഏകോപനം ഉണ്ടെന്ന് ഉറപ്പാക്കുക അങ്ങനെ സഹകരണ ഉൽപ്പാദനക്ഷമത ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയും രണ്ട് ഘട്ടങ്ങളിലായി ഏകോപനം ആരംഭിക്കാം ആദ്യ ഘട്ടത്തിൽ മൊത്തത്തിലുള്ള ലക്ഷ്യവുമായി ആശയവിനിമയം നടത്തുന്ന ഒരു ശൃംഖല സ്ഥാപിക്കാൻ നമുക്ക് കഴിയും രണ്ടാമത്തേതിൽ ഒരു വികേന്ദ്രീകൃത സംവിധാനത്തിൽ തീരുമാനമെടുക്കുന്നവർക്ക് അധികാരം നൽകുന്നു അതിനാൽ ഏകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഈ നെറ്റ്വർക്ക് ജീവനക്കാരുടെ കൈമാറ്റം പ്രോത്സാഹിപ്പിച്ചോ അല്ലെങ്കിൽ വ്യത്യസ്ത ജീവനക്കാർക്കിടയിൽ സ്മാർട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ചോ പരിപാലിക്കപ്പെടുന്നു കാരണം ഞങ്ങൾ നിങ്ങളുടെ ജീവനക്കാരെ വ്യത്യസ്ത സ്മാർട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് സജ്ജീകരിക്കുകയാണെങ്കിൽ കൈമാറ്റം ശാരീരിക കൈമാറ്റം എന്നിവ ആവശ്യമില്ല ഒരേ ഓർഗനൈസേഷനിലെ ജീവനക്കാർ അല്ലെങ്കിൽ വ്യത്യസ്ത ഓർഗനൈസേഷനുകളിൽ ഉടനീളം ശക്തമായ ഏകോപനത്തിനായി ഈ വിവര കൈമാറ്റം നിലനിർത്താൻ കഴിയും ഇപ്പോൾ അതിന്റെ ഉൽപ്പന്ന ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് വശം മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉൽപ്പന്ന ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ഇത് യഥാർത്ഥത്തിൽ വ്യവസായത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണെന്ന് ഈ പദം സൂചിപ്പിക്കുന്നു അതിനാൽ ഈ ഉൽപ്പന്ന ജീവിത ചക്രങ്ങൾ ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നത്തിന്റെ മുഴുവൻ ജീവിതചക്രവും ക്യാപ്ചർ ചെയ്യുന്ന ആശയം മുതൽ വിന്യാസം വരെ ഒരു ഉൽപ്പന്നത്തിന്റെ ജീവിതചക്രത്തെക്കുറിച്ച് ഇത് സംസാരിക്കുന്നു അതിനാൽ ഈ ഉൽപ്പന്ന ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്കായുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റമായി പ്രവർത്തിക്കുന്നു PLM ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു ഭാഗം മുതൽ ആ ഉൽപ്പന്നത്തിന്റെ മുഴുവൻ പോർട്ട്ഫോളിയോ വരെ പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നു ഉൽപ്പന്ന ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് സിസ്റ്റങ്ങളുടെ ഉദാഹരണങ്ങൾ അടിസ്ഥാനപരമായി CIS സിസ്റ്റം കമ്പ്യൂട്ടേഷണൽ ഇന്റലിജന്റ് സിസ്റ്റം കൂടാതെ വ്യവസായങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന മറ്റ് നിരവധി വ്യവസായ നിർദ്ദിഷ്ട PLM സിസ്റ്റങ്ങളും ഉണ്ട് അടിസ്ഥാനപരമായി ഈ PLM സംവിധാനങ്ങൾ വളരെ ജനപ്രിയമാണ് ഉൽപ്പന്ന ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം ഉൽപ്പന്ന വരുമാനം പരമാവധിയാക്കുക ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ചെലവുകൾ കുറയ്ക്കുക ഉൽപ്പന്ന മൂല്യം വർദ്ധിപ്പിക്കുക എന്നിവയാണ് അതിനാൽ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയുന്നതുപോലെ ഇവ വളരെ ആകർഷകമായ സവിശേഷതകളാണ് ഇൻഡസ്ട്രി 4 0 ലേക്ക് നീങ്ങുന്നതിനും ഇൻഡസ്ട്രി 4 0 ൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഇൻഡസ്ട്രി 4 0 ൽ ഓട്ടോമേഷൻ ലക്ഷ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത് നടപ്പിലാക്കേണ്ടതുണ്ട് അതിനാൽ പി എൽ എം ഈ പി പി എന്നാൽ ഉൽപ്പന്നം അതിനാൽ ഉൽപ്പന്നം അടിസ്ഥാനപരമായി വ്യവസായത്തിലെ കേന്ദ്ര തീം ആണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഉൽപ്പന്നങ്ങളെയും പ്രക്രിയകളെയും ചുറ്റിപ്പറ്റിയാണ് അതിനാൽ P എന്നത് ഉൽപ്പന്നവുമായി യോജിക്കുന്നു ഇത് അടിസ്ഥാനപരമായി വ്യവസായങ്ങളിലെ PLM ൽ പരിഗണനയുടെ കേന്ദ്ര ഏജന്റാണ് അതിനാൽ കമ്പനിയുടെ വരുമാനത്തിന്റെ ഉത്ഭവം ഉൽപ്പന്നമാണ് അതിനാൽ ഈ പി വ്യക്തമാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ ഉൽപ്പന്ന ജീവിതചക്രം മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾക്ക് ഉൽപ്പന്നം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സേവനങ്ങൾ ഇല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ എല്ലാ സേവനങ്ങളും അടിസ്ഥാനപരമായി ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉൽപ്പന്ന ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിന്റെ L എന്നത് ലൈഫ് സൈക്കിളിനെ സൂചിപ്പിക്കുന്നു L എന്നാൽ ജീവിതചക്രം ഈ ഉൽപ്പന്നത്തിൽ അഞ്ച് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് അഞ്ച് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് ജീവിതചക്രം അങ്ങനെ PLM ന്റെ ജീവിതചക്രത്തിലും അതിനാൽ ഒന്ന് അടിസ്ഥാനപരമായി ദൃശ്യവൽക്കരണം ദൃശ്യവൽക്കരിക്കുക ഉപയോഗം മനസ്സിലാക്കുക തുടർന്ന് വിനിയോഗിക്കുക അതിനാൽ ദൃശ്യവൽക്കരിക്കുക എന്നാൽ ആശയം ആശയം വിശദീകരിക്കുക ആശയം ഗ്രഹിക്കുക ആശയം തിരിച്ചറിയുക സിസ്റ്റത്തെ പിന്തുണയ്ക്കുക നിർമ്മിച്ച ഉൽപ്പന്നം തുടർന്ന് നിർമ്മിച്ച ഉൽപ്പന്നം വിനിയോഗിക്കുക അല്ലെങ്കിൽ പിൻവലിക്കുക അതിനാൽ ഇവ അഞ്ച് വ്യത്യസ്ത ഭാഗങ്ങളാണ് ഏതൊരു ഉൽപ്പന്ന ജീവിതചക്രത്തിന്റെയും ഉൽപ്പന്ന ജീവിതചക്രത്തിലെ അഞ്ച് വ്യത്യസ്ത ഘട്ടങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതുപോലെ ദൃശ്യവൽക്കരണം ആശയവുമായി പൊരുത്തപ്പെടുന്നു ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്ത ആശയങ്ങളുണ്ട് അതിനാൽ ഈ ഉൽപ്പന്നം നിർമ്മിക്കാൻ അവർ സങ്കൽപ്പിക്കുന്നു അത് ആശയത്തിന്റെ ഭാഗമാണ് അടുത്തതായി ഈ ആശയം അടിസ്ഥാനപരമായി ഘട്ടം വിശദീകരണ ഘട്ടത്തിലൂടെ ക്യാപ്ചർ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാതിനിധ്യമായി രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട് ധാരണ അല്ലെങ്കിൽ ധാരണ അടിസ്ഥാനപരമായി മുൻ ഘട്ടത്തിന്റെ അവസാനത്തിലാണ് ഉൽപ്പന്നം അതിന്റെ അന്തിമ രൂപത്തിൽ നിർമ്മിക്കേണ്ടതുണ്ട് തുടർന്ന് ഉപയോഗം അല്ലെങ്കിൽ പിന്തുണ അടിസ്ഥാനപരമായി ഉപഭോക്താവ് ഉപയോക്തൃ പിന്തുണ ഘട്ടത്തിൽ ഉൽപ്പന്നം ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നിട്ട് അത് ഒരിക്കൽ ഉപയോഗിച്ചുകഴിഞ്ഞാൽ അത് കമ്പനിക്ക് ഉപയോഗപ്രദമല്ലെങ്കിൽ ഉൽപ്പന്നം റിട്ടയർ ചെയ്യേണ്ടിവരും അതിനാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നത് ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ജീവിതചക്രത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങൾ എന്നിവ മനസ്സിലാക്കേണ്ടതുണ്ട് PLM ൽ M എന്നാൽ മാനേജ്മെന്റ് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഉൽപ്പന്ന ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് എം എന്നത് മാനേജ്മെന്റിനെ സൂചിപ്പിക്കുന്നു മാനേജ്മെന്റ് ഞങ്ങൾ ഇവിടെ ഉൽപ്പന്ന മാനേജ്മെന്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവിടെ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ ഏകോപനത്തിന്റെയും സ്ഥാപനത്തിന്റെയും പരിഗണനകൾ പ്രധാനമാണ് വ്യത്യസ്ത ലക്ഷ്യങ്ങൾ പരിഹരിക്കേണ്ടത് ആവശ്യമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവുകൾ നടപ്പിലാക്കുക നിയന്ത്രണത്തിന്റെ ഫലം കൈക്കൊള്ളുക ഇവയാണ് PLM ന്റെ മാനേജ്മെന്റ് വശത്ത് വ്യത്യസ്തമായ പ്രധാന പരിഗണനകൾ അതിനാൽ പിഎൽഎമ്മിന്റെ മാനേജ്മെന്റ് വശത്തിലെ മുഴുവൻ ആശയവും ഒരു ഉൽപ്പന്നം നന്നായി പ്രവർത്തിക്കുന്നുവെന്നും അതിന്റെ ജീവിതചക്രത്തിലുടനീളം അത് കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്നും ഉൽപ്പന്നം കമ്പനിക്ക് ലാഭം നേടുമെന്ന് മാനേജ്മെന്റ് ഉറപ്പുനൽകുന്നുവെന്നും ഉറപ്പാക്കുക എന്നതാണ് 0 ന്റെ കാര്യത്തിൽ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അത് നേടുന്നതിന് ഓട്ടോമേഷൻ പകരേണ്ടതുണ്ട് അതിനാൽ PLM ലെ ഓട്ടോമേഷൻ എന്നത് വ്യവസായങ്ങൾ പരിശ്രമിക്കേണ്ട ഒന്നാണ് കമ്പ്യൂട്ടറുകൾ മാത്രം ഉൾച്ചേർത്ത സംവിധാനങ്ങൾ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ എന്നിങ്ങനെ വിവിധ കാര്യങ്ങളുടെ സഹായത്തോടെ ഈ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും മെച്ചപ്പെടുത്തുന്നതിന് എല്ലാം ഒരുമിച്ച് എടുക്കേണ്ടതുണ്ട് അതിനാൽ പിഎൽഎമ്മിന്റെ ഈ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വിപണി വിഹിതവും വിപണി വലുപ്പവും മെച്ചപ്പെടുത്തുന്നു 0 സാമ്പത്തിക പ്രകടനം വിപണി വിഹിതം വർദ്ധിപ്പിക്കൽ വിപണി വരുമാനം വർദ്ധിപ്പിക്കൽ വികസന ചെലവ് കുറയ്ക്കൽ എന്നിവയെക്കുറിച്ച് PLM ന്റെ ഈ ബിസിനസ്സ് ലക്ഷ്യങ്ങളിൽ ചിലത് ഇവയാണ് അടിസ്ഥാനപരമായി സമയം കുറയ്ക്കൽ പ്രൊജക്റ്റ് സമയം ഓവർറൺ കുറയ്ക്കൽ ലാഭകരമായ സമയം കുറയ്ക്കൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നത് കുറയുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഈ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളിലെ ഉൽപ്പാദന വൈകല്യങ്ങൾ ഏത് നിരക്കിലാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അർത്ഥമാക്കുന്ന വൈകല്യ നിരക്ക് അതിനാൽ ആ നിരക്ക് കുറയുന്നത് ഉപഭോക്തൃ സംതൃപ്തിയും മറ്റും മെച്ചപ്പെടുത്തുന്നു ഇവ അടിസ്ഥാനപരമായി PLM ന്റെ ബിസിനസ്സ് ലക്ഷ്യങ്ങളുടെ ഗുണനിലവാര വശം മെച്ചപ്പെടുത്തുന്നു 100 കോൺഫിഗറേഷൻ അനുരൂപത ഉറപ്പാക്കുന്ന 100 ഉപഭോക്തൃ സംതൃപ്തി മെച്ചപ്പെടുത്തുന്ന ഉൽപ്പന്ന റിലീസിന്റെ കാലതാമസം കുറയ്ക്കുന്ന ബിസിനസ്സിന്റെ മൊത്തത്തിലുള്ള മെച്ചപ്പെടുത്തൽ ഇൻഡസ്ട്രി 4 0 നുള്ള PLM ന്റെ വ്യത്യസ്ത ബിസിനസ്സ് ലക്ഷ്യങ്ങളാണ് അതിനാൽ നമ്മൾ PLM നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഈ വ്യത്യസ്ത വശങ്ങളിൽ ചിലത് നോക്കാം 0 ന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് PLM ന്റെ വ്യാപ്തിയെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ആദ്യം നിങ്ങൾ ഉൽപ്പന്നം രൂപകൽപ്പന ചെയ്യണം അപ്പോൾ ഈ ഉൽപ്പന്നം അതിന്റെ അന്തിമ രൂപ പരിവർത്തനത്തിൽ നിർമ്മിക്കേണ്ടതുണ്ട് ഉൽപ്പന്നത്തിന്റെ ഭൌതിക രൂപത്തിലേക്ക് ഡിസൈൻ പരിവർത്തനം ചെയ്യുക തുടർന്ന് ഈ ഉൽപ്പന്നം വിതരണം ചെയ്യും അതിനാൽ ഇൻഡസ്ട്രി 4 0 ലക്ഷ്യങ്ങൾ പാലിക്കുന്നതിന് അടിസ്ഥാനപരമായി ഇവയെല്ലാം സാധ്യമായ പരിധി വരെ ഓട്ടോമേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ PLM ന്റെ വ്യാപ്തി എന്താണെന്ന് ഞങ്ങൾ തിരികെ പോകും അതിനാൽ ഒരു ഉൽപ്പന്നത്തെ അതിന്റെ ജീവിതചക്രത്തിലുടനീളം കൈകാര്യം ചെയ്യാൻ PLM ൽ ഒമ്പത് ഘടകങ്ങൾ ഉണ്ട് കൂടാതെ ഇവയാണ് ഇതിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ വിവിധ ഘടകങ്ങളുടെ ലക്ഷ്യങ്ങളും മാട്രിക്സും ഓർഗനൈസേഷനും മാനേജ്മെന്റും പ്രവർത്തനങ്ങൾ ആളുകൾ ഉൽപ്പന്ന ഡാറ്റ ഉൽപ്പന്ന ഡാറ്റ മാനേജുമെന്റ് സിസ്റ്റം വ്യത്യസ്ത PLM ആപ്ലിക്കേഷനുകൾ ഉപകരണങ്ങളും സൌകര്യങ്ങളും സാങ്കേതികതകളും രീതികളും ഇവയാണ് അതിനാൽ ഈ വ്യത്യസ്ത ഒമ്പത് ഘടകങ്ങളും PLM ലെ ഒരു ഉൽപ്പന്നത്തിന്റെ ജീവിതചക്രത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ലക്ഷ്യങ്ങളും അളവുകളും PLM നുള്ള ഒരു കമ്പനിയുടെ ലക്ഷ്യം ഗുണനിലവാരവും ബിസിനസ്സും മെച്ചപ്പെടുത്തുക സമയം കുറയ്ക്കുക സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടുത്തുക എന്നിവയാണ് അതിനാൽ കെപിഐയെ സാധാരണയായി കെപിഐകൾ എന്ന് വിളിക്കുന്നു പ്രധാന പ്രകടന സൂചകങ്ങൾ കമ്പനികളിൽ പരിഗണിക്കുന്നു ഇവ അടിസ്ഥാനപരമായി കമ്പനിയിൽ പരിഗണിക്കുന്ന ഒരുതരം മെട്രിക്സുകളാണ് ഒരു പ്രത്യേക ഉൽപന്നത്തിന്റെ വികസനം ലക്ഷ്യമാക്കി ജീവനക്കാർ ലക്ഷ്യമിടുന്നവയാണ് ഇവ അടുത്ത കാര്യം അടിസ്ഥാനപരമായി ഓർഗനൈസേഷനും മാനേജ്മെന്റുമാണ് ഇവിടെ നമ്മൾ റിസോഴ്സ് മാനേജ്മെന്റ് വശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യത്യസ്ത റിസോഴ്സ് റിസോഴ്സ് മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് അർത്ഥമാക്കുന്നത് എല്ലാത്തരം വിഭവങ്ങളും എന്നാണ് ഉൽപ്പന്നം അടിസ്ഥാന സൌകര്യങ്ങൾ മാനവവിഭവശേഷി എല്ലാത്തരം വിഭവങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാത്തരം വിഭവങ്ങളും അതിന്റെ മാനേജ്മെന്റ് വശവും പരിഗണിക്കേണ്ടതാണ് പ്രവർത്തനങ്ങൾ ആശയ മാനേജുമെന്റ് പ്രോഗ്രാം മാനേജ്മെന്റ് പുതിയ ഉൽപ്പന്ന വികസനം തുടങ്ങിയ നിരവധി ഉൽപ്പന്ന ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ട് ഒരു ഉൽപ്പന്നം പുരോഗമിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു ബിസിനസ് അനലിസ്റ്റ് ഒരു കോസ്റ്റ് അക്കൌണ്ടന്റ് അതിനാൽ ഇവയാണ് വ്യത്യസ്ത ആളുകളുടെ വശങ്ങൾ ഉൽപ്പന്ന ഡാറ്റ ഉൽപ്പന്ന ജീവിതചക്രത്തിലുടനീളം ഒരു പ്രധാന ആസ്തിയാണ് അതിനാൽ ഞങ്ങൾ തെറ്റായ ഉൽപ്പന്ന ഡാറ്റ നൽകിയാൽ ഉൽപ്പന്നത്തിന് പ്രശ്നം നേരിടേണ്ടിവരും അതിനാൽ ഉൽപ്പന്ന ഡാറ്റ അർത്ഥമാക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ വ്യാജമാക്കുന്നത് പോലെയാണ് ഉൽപ്പന്നം കേടുപാടുകൾ രഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഉൽപ്പന്നത്തിൽ ചെറുതോ വലുതോ ആയ ചില വൈകല്യങ്ങൾ ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് ഈ കൃത്രിമത്വം പാടില്ല അതിനാൽ ഉൽപ്പന്നം തന്നെ പരാജയപ്പെടുകയും വിപണിയിൽ പ്രശ്നം നേരിടുകയും ചെയ്യും ഉൽപ്പന്ന ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ജനറേറ്റുചെയ്ത എല്ലാ ഡാറ്റയും മാനേജുചെയ്യുന്നു ഇത് മൊത്തത്തിലുള്ള ലൈഫ് സൈക്കിൾ ഉൽപ്പന്ന ജീവിതചക്രം മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നു അതിനാൽ അത് ശരിയായ സമയത്ത് ശരിയായ വിവരങ്ങൾ നൽകുന്നു ആവശ്യമുള്ള പ്രകടന നിലവാരം നേടുന്നതിന് PLM ആപ്ലിക്കേഷനുകൾ വ്യത്യസ്തമായ ആപ്ലിക്കേഷനുകൾ ആവശ്യമാണ് വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കാൻ ആളുകളെ പ്രാപ്തരാക്കുന്നതിന് ഇത് ഉത്തരവാദികളാണ് ഈ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഈ ആപ്ലിക്കേഷനുകൾ ആളുകളെ സഹായിക്കുന്നു വിവിധ ഉപകരണങ്ങളുടെ ഉപയോഗം വിവിധ സൌകര്യങ്ങളുടെ ഉപയോഗം വ്യത്യസ്ത അടിസ്ഥാന സൌകര്യങ്ങളുടെ ഉപയോഗം വ്യവസായത്തിൽ ഇതിനകം നിലവിലുള്ളതും PLM ന്റെ ഓരോ ഘട്ടത്തിലും ഇല്ലാത്തവ വാങ്ങുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്ന ഉപകരണങ്ങളും സൌകര്യങ്ങളും ടെക്നിക്കുകളും രീതികളും ഉല്പന്ന പുരോഗതി സമയം ഉൽപ്പന്ന വില എന്നിവ വഴി ജീവിതചക്രത്തിലുടനീളം ഉൽപ്പാദനം പരിഷ്കരിക്കുന്നതിന് പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചെലവ് കൺകറന്റ് എഞ്ചിനീയറിംഗ് സുസ്ഥിരതയ്ക്കുള്ള രൂപകൽപ്പന ജീവിതചക്രം വിലയിരുത്തൽ എന്നിങ്ങനെ നിരവധി രീതികളും സാങ്കേതികതകളും ഉപയോഗിക്കാം ഇൻഡസ്ട്രി 4 0 ന്റെ ലക്ഷ്യം പാലിക്കുന്നതിന് നിങ്ങൾ PLM സ്വീകരിക്കണമെങ്കിൽ ബിസിനസ്സ് ഡ്രൈവർമാർ നിരവധി പുതിയ ബിസിനസ്സ് വെല്ലുവിളികൾ ഉണ്ട് ഉൽപ്പന്ന ജീവിതചക്രം കുറയ്ക്കുകയോ ചുരുക്കുകയോ ചെയ്യുന്നത് പോലുള്ള വ്യത്യസ്ത ബിസിനസ്സ് വെല്ലുവിളികൾ ഉണ്ട് 0 ന്റെ പശ്ചാത്തലത്തിൽ പുതിയ ഉൽപ്പന്നങ്ങളിൽ ഔട്ട്സോഴ്സിംഗ് വർദ്ധിപ്പിച്ചു ഉൽപ്പന്നങ്ങളുടെ ഘടന സങ്കീർണ്ണമായിരിക്കുന്നു അതിനാൽ IoT സിസ്റ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഒരു CPS സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിക്കുക ഇൻഡസ്ട്രി 4 നമ്മൾ സംസാരിക്കുന്നത് ചെറിയ സെൻസർ പ്രവർത്തനക്ഷമമാക്കുന്ന ഉപകരണങ്ങളുടെ ചെറിയ ആക്യുവേറ്റർ പ്രവർത്തനക്ഷമമാക്കിയ ഉപകരണങ്ങളെക്കുറിച്ചാണ് അതിനാൽ ഈ IoT സിസ്റ്റങ്ങൾ വികസിപ്പിച്ച രീതി ഈ IoT സിസ്റ്റങ്ങൾക്കായി ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ഉൽപ്പന്ന ജീവിതചക്രമാണ് അതിനാൽ പ്രധാനമായും സംഭവിച്ചത് ഐഒടിയിൽ ഉൽപ്പന്ന ജീവിത ചക്രം കുറച്ചു അത് ചുരുക്കി കൂടാതെ പലതും അടിസ്ഥാനപരമായി ധാരാളം ഘടകങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു അവയിൽ പലതും വിവിധ കമ്പനികളിൽ നിന്നുള്ളവയാണ് അതിനാൽ അടിസ്ഥാനപരമായി ഈ ഔട്ട്സോഴ്സിംഗിലും ഐഒടിയുടെ പശ്ചാത്തലത്തിൽ സോഴ്സിംഗിലും ഇൻഡസ്ട്രി 4 0 ലെ അവയുടെ ഉപയോഗം വർദ്ധിച്ചു തൽഫലമായി ഉൽപ്പന്നത്തിന്റെ ഘടന ഉൽപ്പന്നത്തിന്റെ ഘടന വർദ്ധിച്ചു ഉൽപ്പന്ന ഘടനയും സങ്കീർണ്ണമായിരിക്കുന്നു അതിനാൽ ഇൻഡസ്ട്രി 4 0 ൽ PLM നുള്ള ഈ പുതിയ ബിസിനസ്സ് വെല്ലുവിളികളിൽ ചിലത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് വേഗതയിലെ വർദ്ധനവ് ആവശ്യകതയിലെ വർദ്ധനവ് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം എന്നിവയാണ് ഒരു പ്രത്യേക ബിസിനസ്സ് നയിക്കുന്നതിനുള്ള മറ്റ് വെല്ലുവിളികൾ വ്യാവസായിക ആവശ്യകത ഇക്കാലത്ത് വ്യത്യസ്ത യൂണിറ്റുകളുടെ ഭൌതിക സാന്നിധ്യത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് വെർച്വൽ സാന്നിധ്യവും ഉണ്ടാകാം ഭൂമിശാസ്ത്രപരമായി ചിതറിക്കിടക്കുന്ന ഡിസൈൻ ടീമുകൾ ഉണ്ടാകാം വിതരണ ശൃംഖല തന്നെ വലിയ അളവിൽ വെർച്വൽ ആക്കി ഈ ഐഒടി സംവിധാനങ്ങൾ സ്വീകരിക്കുന്നതിനൊപ്പം ഇത് കൂടുതൽ വർധിപ്പിക്കാം അതിനാൽ വ്യത്യസ്ത വ്യവസായ ഘടകങ്ങൾ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ് ആവശ്യം അതിനാൽ നെറ്റ് സെൻട്രിക് ടെക്നോളജികൾ ഇക്കാലത്ത് PLM ൽ അവയുടെ ഉപയോഗത്തിൽ വർധിച്ചിട്ടുണ്ട് മാത്രമല്ല അത് ഉൽപ്പാദന പ്രക്രിയയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക മാത്രമല്ല വികസനത്തിന്റെ കാര്യത്തിൽ അതിനെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയും ചെയ്തു അതിനാൽ ഇൻഡസ്ട്രി 4 0 ന് PLM ന് ഉപയോഗിക്കാവുന്ന 10 ഘട്ട സമീപനങ്ങളാണിവ PLM ന്റെ ഒന്നാം നമ്പർ ഡാറ്റാ ശേഖരണ വിദ്യാഭ്യാസം അതിനാൽ വിദ്യാഭ്യാസ ഘടകം വളരെ പ്രധാനമാണ് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നാൽ വിദ്യാഭ്യാസവും പരിശീലനവും വളരെ പ്രധാനമാണ് PLM ആശയം PLM റോഡ്മാപ്പ് സൃഷ്ടിക്കൽ വികസന തന്ത്രം പലിശ കണക്കുകൂട്ടൽ നിരക്ക് മാനേജ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കൽ എക്സിക്യൂട്ടീവ് തയ്യാറാക്കൽ എക്സിക്യൂട്ടീവ് തീരുമാന പിന്തുണ എന്നിവയിൽ മാനേജ്മെന്റ് പരിശീലനം നിങ്ങൾക്ക് ഇവയിൽ ഓരോന്നിനെയും കുറിച്ച് കൂടുതൽ വിശദമായി അറിയണമെങ്കിൽ ഇവയിൽ പലതും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല അവയിൽ മിക്കതും ഈ പേരുകളിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ വിശദമായി മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഉറവിടമാണിത് അതിനാൽ ഇവ മനസിലാക്കാൻ നിങ്ങൾക്ക് ഈ പ്രത്യേക സാഹിത്യത്തിലൂടെ പോകാം അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു അതിനാൽ സഹകരണ പ്ലാറ്റ്ഫോം ഉൽപ്പന്ന ലൈഫ്സൈക്കിൾ മാനേജ്മെന്റ് IoT IIoT ഇൻഡസ്ട്രി 4 0 എന്നിവയുടെ പശ്ചാത്തലത്തിൽ അവരുടെ ഓട്ടോമേഷൻ മെച്ചപ്പെടുത്തൽ വളരെ പ്രധാനമാണ് അതിനാൽ ഇവ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു പക്ഷേ ഞങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് പാടില്ല അതുകൊണ്ടാണ് ഇൻഡസ്ട്രി 4 0 IIoT എന്നിവയെക്കുറിച്ചുള്ള ഈ പ്രത്യേക കോഴ്സിൽ ഞങ്ങൾ ഇവ ഉൾപ്പെടുത്തിയത്